ഈ പാഠത്തിൽ പരമാവധി പവർ ട്രാൻസ്ഫർ സിദ്ധാന്തം നമ്മൾ ചർച്ച ചെയ്യും ഇത് വലിയ പ്രായോഗിക പ്രാധാന്യമുള്ള ഒരു സിദ്ധാന്തമാണ് നിങ്ങൾക്ക് റെസിസ്റ്ററുകളും കൺട്രോൾ സ്രോതസ്സുകളും പോലുള്ള നിരവധി സ്വതന്ത്ര സ്രോതസ്സുകളും മറ്റ് ലീനിയർ ഘടകങ്ങളും ഉള്ള ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ അവിടത്തെ ടെർമിനലുകൾക്ക് ആക്സസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പരമാവധി പവർ ഒരു റെസിസ്റ്ററിനെ ബന്ധിപ്പിക്കുന്നത് അതിനിടയിലുള്ള ഒരു ലോഡ് എങ്ങനെയാണ് നിങ്ങൾ എക്സ്ട്രാക്റ്റു ചെയ്യുന്നത് എന്നതാണ് ചോദ്യം അതായത് ഈ രണ്ട് ടെർമിനലുകൾക്ക് ഇടയിൽ നിന്നു അതിനാൽ ഈ ടെർമിനലുകളിൽ നിന്ന് വലിച്ചെടുക്കാൻ കഴിയുന്ന പവർ പരമാവധിയാക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് നമ്മൾ നോക്കുന്നത് ഇത് പരമാവധി പവർ ട്രാൻസ്ഫർ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു എനിക്ക് സ്വതന്ത്ര സ്രോതസ്സുകൾ ലീനിയർ റെസിസ്റ്ററുകൾ ലീനിയർ കൺട്രോൾ സ്രോതസ്സുകൾ സെൽഫ് കണ്ടന്റ എന്നിവയുള്ള ഒരു നെറ്റ്വർക്ക് N ഉണ്ട് അതിനാൽ എല്ലാ നിയന്ത്രിത അളവുകളും ഒരേ സർക്യൂട്ട് N ൽ ഉള്ളതാണ് അതിൽ രണ്ടെണ്ണം ടെർമിനലുകൾ 1 1 പ്രൈം ആണ് നമുക്ക് 1 നും 1 പ്രൈമിനും ഇടയിൽ RL നെ ബന്ധിപ്പിക്കാൻ കഴിയും അവിടെ എല്ലാം RL ന്റെ വ്യത്യാസം വരും കൂടാതെ RL ന്റെ ഏത് മൂല്യത്തിൽ നമുക്ക് സർക്യൂട്ടിൽ നിന്ന് പരമാവധി പവർ എടുക്കാൻ കഴിയുമെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതായത് RL ന്റെ ഏത് മൂല്യത്തിലാണ് പരമാവധി വൈദ്യുതി RL ൽ വിനിയോഗിക്കുക ആ പവർ എത്രയാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ എല്ലാ നെറ്റ്വർക്കുകളും രണ്ട് ടെർമിനലുകൾ ആക്സസ് ചെയ്യാവുന്ന എല്ലാ സർക്യൂട്ടും മാതൃകയാക്കാൻ കഴിയുമെന്ന് നമ്മൾക്കറിയാം ഒന്നുകിൽ തെവെനിൻ തത്തുല്യമായത് അതായത് ഒരു വോൾട്ടേജ് സ്രോതസ്സ് Vth പ്രതിരോധം Rth അല്ലെങ്കിൽ നോർട്ടൺ തത്തുല്യം അതായത് ഒരു പ്രതിരോധത്തിന് ഇടയിലൂടെ IN കറണ്ട് സ്രോതസ്സ് കൊണ്ടുപോകുമ്പോൾ വരുന്നതാണ് RN അതിനാൽ നമ്മൾ ഈ മോഡലുകൾ ഉപയോഗിക്കും സർക്യൂട്ടിന്റെ പ്രത്യേകതകൾ കൈകാര്യം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഈ സർക്യൂട്ടുകളെല്ലാം ഈ മോഡലിലേക്കോ ആ മോഡലിലേക്കോ ചുരുക്കാൻ കഴിയുമെന്ന് നമ്മൾക്കറിയാം അതിനാൽ പരമാവധി പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ കണ്ടെത്തുന്നതിന് ഈ മോഡലുകളിലൊന്ന് നമ്മൾ പരിഗണിക്കും നമുക്ക് ഏതെങ്കിലുമൊന്ന് ഉപയോഗിക്കാം ഉത്തരം രണ്ട് കേസിലും തുല്യമായിരിക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് Rth ന്റെ സിരിസിൽ Vth എന്ന വോൾട്ടേജ് സ്രോതസ്സ് ഉണ്ടെങ്കിൽ ഈ ഭാഗം എന്തായാലും ശരിയാക്കും കാരണം നമുക്ക് വ്യത്യാസപ്പെടാൻ അനുവാദമുള്ളത് ലോഡ് RL ആണ് അതിനാൽ RL വ്യത്യസ്തമായതിനാൽ അത് എപ്പോഴാണ് പരമാവധി പവർ എടുക്കുന്നത് അതാണ് നമ്മൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ RL ൽ വിനിയോഗിക്കുന്ന പവർ എന്താണ് PL എന്നത് RL ലൂടെയുള്ള വോൾട്ടേജ് × RL വഴിയുള്ള കറന്റ് എന്നിവയ്ക്ക് തുല്യമായിരിക്കും വോൾട്ടേജ് ഡിവൈഡർ എക്സ്പ്രഷനിൽ നിന്നുള്ള RLനിടയിലുള്ള വോൾട്ടേജ് എന്നത് Vth x RL RL Rth ആണ് RL ലൂടെയുള്ള കറന്റ് Rth RL ൽ ഉടനീളം Vth മൂലം ആണ് അതിനാൽ ഇത് വെറും Vth RL Rth ആയിരിക്കും രണ്ടിന്റെയും ഉൽപന്നമായ പവർ PL എന്നത് Vth സ്ക്വയർ RL RL Rth സ്ക്വയർ ആയിരിക്കും ഇപ്പോൾ ഫംഗ്ഷൻ പരമാവധിയാക്കാൻ ഫംഗ്ഷനെ വേർതിരിച്ച് 0 ആയി സജ്ജമാക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം കുറഞ്ഞത് അത് ഫംഗ്ഷന്റെ തീവ്രത കണ്ടെത്തും അത് പരമാവധി അല്ലെങ്കിൽ മിനിമം ആണെങ്കിലും രണ്ടാമത്തെ ഡെറിവേറ്റീവ് കണ്ടെത്തുമ്പോൾ അത് പരമാവധി അല്ലെങ്കിൽ കുറഞ്ഞതാണോ എന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും ഇപ്പോൾ ഇവിടെ നമ്മുടെ വേരിയബിളായ RL നെ വെച്ച് ഡിഫറൻസ്ഷൻ ചെയ്യുന്നു അതാണ് നമുക്ക് വ്യത്യാസപ്പെടുത്താൻ അനുവാദമുള്ളത് നമുക്ക് Vth സ്ക്വയർ ഉണ്ട് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്ഥിരതയുള്ളതാണ് ഡിനോമിനേറ്റർ സ്ക്വയർ ആയിരിക്കും നമ്മൾക്ക് ഡിനോമിനേറ്റർ × ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് ഉണ്ട് അത് RL Rth സ്ക്വയർ × RL ന്റെ ഡെറിവേറ്റീവ് ആയി മാറുന്നു അത് 1 ആണ് ന്യൂമറേറ്റർ RL × ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് അത് 2 × RL Rth ആണ് അതിനാൽ ഈ മുഴുവൻ കാര്യങ്ങളും Vth സ്ക്വയർ × RL Rth Rth RL ആയി മാറുന്നു ഇവിടെ നമുക്ക് RL Rth 4 ന്റെ പവറിൽ ഉണ്ട് ഇപ്പോൾ ഇത് പൂജ്യത്തിലേക്ക് പോകുന്നത് കാണാൻ വളരെ എളുപ്പമാണ് RL Rth ഉം RL Rth ഉം വരുമ്പോൾ ഡെറിവേറ്റീവ് പൂജ്യത്തിലേക്ക് പോകുന്നു അതിനാൽ അത് ശരിയാണ് അത് സംഭവിച്ചു അത് പരമാവധി ആണെന്ന് അറിയാൻ പറ്റും ലോഡ് റെസിസ്റ്റൻസ് എന്നത് 1 1 പ്രൈം എന്നീ രണ്ട് ടെർമിനലുകളിൽ കാണുന്ന തെവെനിൻ റെസിസ്റ്റൻസ് ആണെങ്കിൽ അത് പരമാവധി പവർ വലിച്ചെടുക്കുന്നു ഈ അവസ്ഥയെ സ്രോതസ്സുമായിട്ടുള്ള ലോഡ് പൊരുത്തപ്പെടുത്തൽ എന്ന് വിളിക്കുന്നു സ്രോതസ്സിന് കുറച്ച് ആന്തരിക പ്രതിരോധമുണ്ട് അത് Rth ആണ് അത് തുല്യമായ പ്രതിരോധം അല്ലെങ്കിൽ സ്രോതസ്സിന്റെ ടെർമിനൽ പ്രതിരോധം ആണ് നിങ്ങൾക്ക് ഒരേ മൂല്യമുള്ള ഒരു ലോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി പവർ എടുക്കും ഇപ്പോൾ അതിന്റെ പവർ എത്രയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ കറന്റ് Vth 2 Rth ആയിരിക്കും അത് ഇതിലുടനീളമുള്ള വോൾട്ടേജ് വെറും Vth 2 ആയിരിക്കും അതിനാൽ RL ൽ നിങ്ങൾ വ്യത്യാസം വരുത്തുന്ന പരമാവധി പവർ നൽകിയിരിക്കുന്ന സ്രോതസ്സ് ഈ വോൾട്ടേജിന്റെയും കറന്റിന്റെയും ഉൽപ്പന്നമാണ് അത് Vth2 4 Rth ആണ് ശ്രദ്ധിക്കുക ഇത് വെറും സർക്യൂട്ടിന്റെ പ്രോപ്പർട്ടി ആണ് പരമാവധി പവർ വലിച്ചെടുക്കാൻ ലോഡ് ക്രമീകരിക്കുമ്പോൾ പ്രതിരോധം സ്രോതസ്സ് പ്രതിരോധത്തിന് തുല്യമായിരിക്കും അതിനാൽ ലോഡിൽ ചിതറിക്കിടക്കുന്ന പരമാവധി പവർ Vth24Rth ന് തുല്യമായിരിക്കും ഇത് സ്രോതസ്സ്ൽ നിന്ന് ലഭ്യമായ പരമാവധി പവർ എന്നറിയപ്പെടുന്നു സ്രോതസ്സ് എന്നതുകൊണ്ട് ഉണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഭാഗം Vth Rth എന്നിവയുടെ സംയോജനമാണ് അത് സ്വയം അങ്ങനെയായിരിക്കാം അതായത് നിങ്ങൾക്ക് ഒരു വോൾട്ടേജ് സ്രോതസ്സ് ഉണ്ടായിരിക്കാം പ്രതിരോധം ഉള്ള സീരീസ് അല്ലെങ്കിൽ അത് വളരെ സങ്കീർണ്ണമായ ഒരു സർക്യൂട്ടിന്റെ പ്രതിനിധാനമായിരിക്കാം ഏത് സങ്കീർണ്ണമായ സർക്യൂട്ടിനെയും ഈ രൂപത്തിൽ പ്രതിനിധീകരിക്കാൻ കഴിയുമെന്ന് നമ്മൾക്കറിയാം ഒരു വോൾട്ടേജ് സ്രോതസ്സും റെസിസ്റ്റൻസ് ഉള്ള ശ്രേണിയും അതിനാൽ സ്രോതസ്സിൽ നിന്ന് ലഭ്യമായ പരമാവധി പവർ എത്രയാണെങ്കിലും അതായത് സ്രോതസ്സിൽ നിന്ന് വലിച്ചെടുക്കുന്ന വൈദ്യുതിയുടെ അളവ് പരമാവധിയാക്കാൻ നിങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്താൽ ഇതാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുക അതിനാൽ ചുരുക്കത്തിൽ നിങ്ങൾക്ക് പ്രതിനിധീകരിക്കുന്ന ഒരു സ്രോതസ്സ് വോൾട്ടേജ് സ്രോതസ്സ് Vth റെസിസ്റ്റൻസ് Rth സീരീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പരമാവധി പവർ എടുക്കുന്നതിന് നിങ്ങൾ Rth ന് തുല്യമായ ഒരു ലോഡ് റെസിസ്റ്റൻസ് ബന്ധിപ്പിക്കണം അതായത് നിങ്ങൾ സ്രോതസ്സിലേക്കും വൈദ്യുതിയുടെ അളവിലേക്കും ലോഡ് പൊരുത്തപ്പെടുത്തണം സ്രോതസ്സിൽ നിന്ന് ലഭ്യമായ പരമാവധി പവർ Vth 2 4 Rth ആണ് അതിനാൽ പരമാവധി പവർ ട്രാൻസ്ഫർ സിദ്ധാന്തത്തിന്റെ പ്രസ്താവന ഇതാ തന്നിരിക്കുന്ന ഒരു സ്രോതസ്സിന് ഞാൻ നൽകിയിരിക്കുന്ന സ്രോതസ്സു എന്ന് പറയുമ്പോൾ തെവെനിൻ വോൾട്ടേജും തെവെനിൻ പ്രതിരോധവും നൽകിയിരിക്കുന്നു ലോഡ് പ്രതിരോധം സ്രോതസ്സിന്റെ തെവെനിൻ പ്രതിരോധം വരുമ്പോൾ അതിൽ നിന്ന് പരമാവധി പവർ എടുക്കാൻ കഴിയും ഞാൻ അതിനെ ഉറവിട പ്രതിരോധം RL Rth എന്നും പരമാവധി പവർ എടുക്കുമെന്ന് കരുതും ഇത് സ്രോതസ്സിന്റെ ലഭ്യമായ പവർ Vth24Rth ആണ് ഇതാണ് ലഭ്യമായ പവർ ഇപ്പോൾ ഞാൻ ഇവിടെ ചില പരോക്ഷമായ അനുമാനങ്ങൾ നടത്തി Rth പോസിറ്റീവ് ആണെന്നും RL പോസിറ്റീവ് ആണെന്നും ഞാൻ അനുമാനിക്കുന്നു ആന്റിന പോലുള്ള പല സ്രോതസ്സുകളുടെയും അവസ്ഥ ഇതാണ് ആന്റിനയെ ഒരു വോൾട്ടേജ് സ്രോതസ്സായും ചില പ്രതിരോധങ്ങളുള്ള സീരീസായും പ്രതിനിധീകരിക്കാം അത് ആന്റിനയുടെ ഇംപെഡൻസും കാണിക്കുന്നു തുടർന്ന് ലോഡ് അത് എല്ലായ്പ്പോഴും വിഘടിപ്പിക്കുന്നതുമാണ് അതിനാൽ ഇത് ഒരു പോസിറ്റീവ് റെസിസ്റ്ററും ആണ് അതിനാൽ ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾ RL Rth ആക്കുമ്പോൾ നിങ്ങൾക്കു പരമാവധി പവർ കിട്ടുന്നു ഇത് അൽപ്പം വ്യത്യസ്തമായ രീതിയിലും നൽകാം പവർ എന്നതിന്റെ പദപ്രയോഗം Vth2 RL Rth 2 × RL ആയിരുന്നു ഇത് Vth 2 Rth Rth RL Rth RL2 എന്നും I എന്നത് Vth 2 Rth × സ്ക്വയർ റൂട്ട് Rth RL Rth RL എന്നും പുനരാലേഖനം ചെയ്യാം ഇത് എന്നതിന്റെ ആയി വീണ്ടും എഴുതും അവസാനമായി ഡിനോമിനേറ്ററിൻറെ വർഗ്ഗമൂല്യം എടുക്കുമ്പോൾ നമുക്ക് Vth സ്ക്വയർ Rth 1 സ്ക്വയർ റൂട്ട് Rth RL എന്നത് RL Rth സ്ക്വയറിൻറെ വർഗ്ഗമൂല്യം ആയി ലഭിക്കും ഇപ്പോൾ നിങ്ങൾ ഡിനോമിനേറ്റർ നിരീക്ഷിച്ചാൽ ഇത് x 1 x സ്ക്വയർ രീതിയിലുള്ളതാണ് ഇപ്പോൾ ഈ ഫോം x 1 x നിങ്ങൾക്ക് പരിചിതമായിരിക്കും x കൂടുന്നതിനനുസരിച്ച് ആദ്യത്തേത് വർദ്ധിക്കുകയും രണ്ടാമത്തേത് കുറയുകയും ചെയ്യുന്നു നിങ്ങൾ ഇതിന്റെ മൂല്യം കുറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ x കൃത്യമായി 1 ആകുമ്പോഴാണ് അതായത് x കൃത്യമായി 1 ആകുമ്പോൾ മിനിമം സംഭവിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ x 1 x 0 ലേക്ക് പോകുന്നു ഇത് അനന്തതയിലേക്ക് പോകും x അനന്തതയിലേക്ക് പോകുമ്പോൾ ഇത് അനന്തതയിലേക്ക് പോകും ചിലത് ഏറ്റവും കുറഞ്ഞതിലെത്തും അത് അങ്ങനെയായിരിക്കും അതായത് x 1 ആണ് നിങ്ങൾക്ക് ഇത് സ്വയം പ്രവർത്തിക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ഈ പദപ്രയോഗത്തിന്റെ ഡിനോമിനേറ്റർ കാണുകയാണെങ്കിൽ അത് ഈ രൂപത്തിലുള്ളതാണ് x1x2 ഇപ്പോൾ ഈ ഫംഗ്ഷൻ പരമാവധിയാക്കാൻ അതായത് ലോഡിലെ പവർ പരമാവധിയാക്കാൻ ഡിനോമിനേറ്ററിനെ ചെറുതാക്കേണ്ടതുണ്ട് ഓർക്കുക RL എന്നത് ഡിനോമിനേറ്ററിൽ മാത്രമേയുള്ളൂ ഇപ്പോൾ അത് എക്സ്പ്രഷനിൽ വേറെ എവിടെയുമില്ല അതിനാൽ നമ്മൾ ഡിനോമിനേറ്റർ ചെറുതാക്കേണ്ടതുണ്ട് x 1 ഈ ഓരോ പദങ്ങളും 1 ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവയിലൊന്ന് x ആയും മറ്റൊന്ന് 1 x ആയും കണക്കാക്കാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡിനോമിനേറ്റർ ആയിരിക്കുമ്പോൾ സംഭവിക്കുന്ന RL ന്റെ പരമാവധി RL Rth എന്നതിൻറെ സ്ക്വയർ റൂട്ട് 1 അല്ലെങ്കിൽ RL Rth ആയിരിക്കുമ്പോൾ ആണ് വരുന്നത് അത് ഏറ്റവും കുറവാണ് അതിനാൽ അതേ ഫലം നേടുന്നതിനുള്ള മറ്റൊരു മാർഗമാണിത് ഇപ്പോൾ നമുക്ക് ഇത് അൽപ്പം കൂടി പര്യവേക്ഷണം ചെയ്യാം ഈ പദപ്രയോഗം PL എന്നത് Vth സ്ക്വയർ × RL RL Rth സ്ക്വയർ ആവും PL എന്നത് RL ന്റെ ഫങ്ഷൻ ആയിരിക്കും ഇതാണ് നിങ്ങൾ കാണുന്നത് Rth പോസിറ്റീവ് ആണെങ്കിൽ RL എന്നത് പോസിറ്റീവ് ആയി പുനർവിതരണം ചെയ്താൽ RL Rth ആയിരിക്കുമ്പോൾ ഈ ഫംഗ്ഷൻ പരമാവധി ആയിരിക്കും RL 0 ന് തുല്യമായ ലോഡ് ഒരു ഷോർട്ട് സർക്യൂട്ട് ആണ് അവിടെ വോൾട്ടേജ് ഉണ്ടാകില്ല അതു ഒരു ശക്തിയും വലിച്ചെടുക്കുന്നില്ല ഒരു ശക്തിയും ചിതറിക്കുന്നില്ല അതുപോലെ RL അനന്തതയായിരിക്കുമ്പോൾ അത് ഒരു ഓപ്പൺ സർക്യൂട്ടാണ് അതിലൂടെ കറന്റ് ഉണ്ടാകില്ല വീണ്ടും RL ലൂടെയുള്ള വൈദ്യുതി ഉണ്ടാകില്ല ഇപ്പോൾ നിങ്ങൾ RL നെ നെഗറ്റീവ് ആകാൻ അനുവദിച്ചാൽ സംഭവിക്കുന്നത് RL Rth ആവും നിങ്ങൾക്ക് വോൾട്ടേജ് സ്രോതസ്സിലുടനീളം ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ സീരീസ് കോമ്പിനേഷൻ നിങ്ങൾക്ക് 0 റെസിസ്റ്റൻസ് നൽകുന്നു അതിനാൽ അത് നിങ്ങൾക്ക് സാധ്യമായ പരമാവധി വൈദ്യുതധാര നൽകുന്നു അത് RL ലൂടെയുള്ള അനന്തമായ വൈദ്യുതധാരയാണ് കൂടാതെ RL പവർ വിതരണം ചെയ്യും RL Rth ആകുമ്പോൾ അത് അനന്തതയിലേക്ക് പോകുന്നു Rth എന്നതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ആകുമ്പോൾ അത് വീണ്ടും 0 ലേക്ക് മടങ്ങുന്നു അതിനാൽ ഇവിടെ ഞാൻ Rth 0 ൽ കൂടുതൽ ആണെന്ന് അനുമാനിക്കുന്നു തുടർന്ന് പരമാവധി പവർ RL ൽ നിരീക്ഷിക്കന്നു നിങ്ങൾ പരമാവധി പവർ നിരീക്ഷിച്ചതോ വിതരണം ചെയ്തതോ RL ൽ ആണെന്ന് പറയുകയാണെങ്കിൽ RL Rth ആകുമ്പോൾ ഡെലിവർ ചെയ്തതാണ് പരമാവധി പവർ പക്ഷേ തീർച്ചയായും ഇത് പൂർണ്ണമായ ഫലം അല്ല കാരണം RL തന്നെ പവർ നൽകുകയും അതിനായി Rth ലേക്ക് നൽകുകയും ചെയ്യുന്നു RL ഫിസിക്കൽ റെസിസ്റ്ററാകാൻ കഴിയില്ല എന്നാൽ ചില ഉള്ളിൽ ഉറവിടങ്ങളുള്ള സങ്കീർണ്ണമായ സർക്യൂട്ടുകളും മറ്റും തുല്യമാണ് അതിനാൽ ഇത് വളരെ ഉപയോഗപ്രദമായ ഒരു ഫലമല്ല പക്ഷേ അനന്തമായ പവർ സാധ്യമാണെന്ന് ഞാൻ എടുത്തുകാണിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ അത് അനന്തമായ പവർ ഡെലിവർ ചെയ്യപ്പെടും RL കൃത്യമായി ചെയ്യുമ്പോൾ അത് Rth നു തുല്യമായിരിക്കും കറൻറ് ലൂപ്പ് അനന്തതയിലേക്ക് പോകുന്നു നിങ്ങൾക്ക് അനന്തമായ പവർ ഫലവും ഉണ്ട് യഥാർത്ഥ പ്രാധാന്യം ഇതാണ് RL Rth നിങ്ങൾക്ക് പരമാവധി പവർ നിരീക്ഷിക്കുകയും നിങ്ങൾക്ക് ഒരു ആന്റിന ഉള്ളപ്പോൾ ഇതിന്റെ ഉദാഹരണം സംഭവിക്കുകയും ചെയ്യുന്നു ആന്റിനയെ ഒരു വോൾട്ടേജ് ഉറവിടമായും ശ്രേണിയായും പ്രതിനിധീകരിക്കാം അതിനാൽ നിങ്ങൾക്ക് 50 ഓം റെസിസ്റ്റൻസ് ഉള്ള ശ്രേണിയിൽ ഒരു വോൾട്ടേജ് സ്രോതസ്സ് ഉണ്ട് പരമാവധി പവർ വരയ്ക്കുന്നതിന് നിങ്ങളുടെ സർക്യൂട്ട് 50 ഓം റെസിസ്റ്റൻസ് പോലെ ദൃശ്യമാകണം വീണ്ടും ഈ ലോഡ് റെസിസ്റ്റൻസ് പോലും നിങ്ങളുടെ സർക്യൂട്ടിന്റെ ഇൻപുട്ടിന്റെ പ്രതിനിധാനമാണ് അത് ആയിരിക്കാം ഒരു ഫിസിക്കൽ പ്രതിരോധം അത് ഒരു ഫിസിക്കൽ റെസിസ്റ്റൻസ് പവർ ഡിസ്സിപേറ്റഡ് യൂണിറ്റായിരിക്കും അത് എന്തെങ്കിലും വൈദ്യുതിക്ക് തുല്യമാണെങ്കിൽ മറ്റെവിടെയെങ്കിലും പവർ പോകും പക്ഷേ 50 ഓം ആന്തരിക പ്രതിരോധമുള്ള ആന്റിനയിൽ നിന്ന് പരമാവധി പവർ എടുക്കാൻ നിങ്ങളുടെ സർക്യൂട്ടുകൾ 50 ഓം പ്രതിരോധം നൽകണം നിങ്ങളുടേത് തുടരും നിങ്ങൾ പിന്നീട് പഠിക്കൂന്ന RF സർക്യൂട്ടിന്റെ ഇൻപുട്ട് 50 ഓം ആയി തോന്നിപ്പിക്കുന്നതിന് വളരെയധികം പരിശ്രമം ചിലവഴിക്കുന്നുവെന്ന് കണ്ടെത്തുക അവസാനമായി ഞാൻ ചർച്ച ചെയ്യാത്ത ഒരു കാര്യത്തെ സ്പർശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സാഹചര്യം ചിലത് നിങ്ങളെ ആശയക്കുഴപ്പത്തിൽ ആക്കരുത് നിങ്ങൾക്ക് Vs ഉം Rs ഉം ഉണ്ട് അതിലേക്ക് ഒരു ലോഡ് കണക്റ്റുചെയ്യുന്നു കൃത്യമായി ഇത് മുൻപത്തേത് സമാനമാണ് ഞാൻ ചിഹ്നങ്ങൾ മാറ്റുന്നു അത്രമാത്രം ഇപ്പോൾ നിങ്ങൾ RL കളിൽ വ്യത്യാസം വരുത്തുന്നത് പോലെ Rs നെ വ്യത്യാസപ്പെടുത്തുന്നു എന്ന് പറയാം പരമാവധി പവർ നിരീക്ഷിക്കുമ്പോൾ അതിന്റെ മൂല്യം എന്താണ് RLI ആണ് നിങ്ങൾക്ക് ഇത് സ്വയം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഇത് ഡിഫെറെൻഷ്യറ്റ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എന്തിനാണ് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ പ്രതിരോധങ്ങളും പോസിറ്റീവ് ആണെന്ന് അനുമാനിക്കാം അല്ലെങ്കിൽ അവ നെഗറ്റീവ് അല്ലെന്ന് അനുമാനിക്കാം അതിനെക്കുറിച്ച് ചിന്തിക്കുക ഉത്തരം വളരെ ലളിതമാണ് എന്നാൽ ഈ സാഹചര്യത്തെ മറ്റൊന്നുമായി താരതമ്യപ്പെടുത്തി ആശയക്കുഴപ്പത്തിലാക്കരുത് അവിടെ പരമാവധി പവർ നിരീക്ഷിക്കുമ്പോൾ RL കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു